ആസ്പെക്ടസ് ഓഫ് സോഫ്റ്റ് സ്കിൽസ് എന്ന തലക്കെട്ടിൽ സോഫ്റ്റ് സ്കിൽസിന്റെ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആദ്യത്തെ പ്രഭാഷണത്തിൽ സോഫ്റ്റ് സ്കിൽസ്ന്റെ സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ് എന്നും തുടർന്ന് സോഫ്റ്റ്സ്കിൽസ്ന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു വ്യക്തിഗത ജീവിതത്തിലും ബിസിനസ്സ് ലോകത്തും വിവിധ ജോലികളുടെ സ്ഥിതിവിവരക്കണക്കുകളും അവയുടെ പ്രാധാന്യവും സോഫ്റ്റ് സ്കിൽസ്ന്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചു ചില പത്രത്തിൽ വന്ന സ്ഥിതിവിവരക്കണക്കുകളും നിങ്ങൾ പരിശോധിച്ചു ജീവിതം വിജയകരമായി മുന്നോട്ടു പോകാനും നല്ലൊരു കരിയർ നയിക്കാനും നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിന്റെ ആവശ്യകതകൾ മനസ്സിലായിക്കാണും ഈ ഭാഗത്തിൽ സോഫ്റ്റ് സ്കിൽസിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 10 മുതൽ 20 മുതൽ 60 വരെയും വ്യത്യസ്ത അളവിലും ആകാം സോഫ്റ്റ് സ്കിൽസിനെ നമുക്ക് പല മേഖലയായി തരംതിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാൽ സോഫ്റ്റ് സ്കിൽസ് ആണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സോഫ്റ്റ് സ്കിൽസ്ന്റെ ഭാഗമാണെന്ന രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യാം നമ്മൾ ഉടനീളം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഫലപ്രദമായ കമ്മ്യൂണിക്കേഷൻ ആണ് അതിനാൽ സോഫ്റ്റ് സ്കിൽസിന്റെ പ്രധാന വശങ്ങളിലൊന്ന് ഫലപ്രദമായ ആശയവിനിമയമാണ് ഇപ്പോൾ എന്താണ് ഫലപ്രദമായ ആശയവിനിമയം നേരിട്ട് അല്ലെങ്കിൽ ടെലിഫോൺ അല്ലെങ്കിൽ ചാറ്റുകൾ വഴി എസ്എംഎസ് വഴി ഇമെയിലുകൾ വഴി അല്ലെങ്കിൽ മറ്റ് ചില ഉപകരണങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്ന രീതിയാണ് ഇന്നുള്ളത് പക്ഷേ അവ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഫലപ്രദമായ ആശയവിനിമയം എന്താണ് റിട്ടെൺ ആൻഡ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള സ്പെഷ്യൽ സെഗ്മെന്റിൽ പോകുമ്പോൾ നാം ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും എപ്പോഴാണ് ഒരു ആശയവിനിമയം ഫലപ്രദമാകുന്നത് എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്നത് ആവശ്യമായ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നിങ്ങൾ ഒരു പുസ്തകത്തിനായി ഓർഡർ ചെയ്തു പരിമിതമായ കാലയളവിൽ നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുകയും ചെയ്തു അതിന്റെ അർഥം നിങ്ങൾ ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുവെന്നാണ് ചിലപ്പോൾ നിങ്ങൾ ഓർഗനൈസേഷനുകളിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാം അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടാവാം ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതികൊണ്ടാവാം അല്ലെങ്കിൽ ഇത് ഘടനാപരമായ ക്രമത്തിൽ വന്നത് മൂലമായിരിക്കാം ചിലപ്പോൾ വാക്യ നിർമ്മാണം കാരണമായിരിക്കാം ചിലപ്പോൾ മറ്റ് ചില കാരണങ്ങളാൽ പക്ഷേ പല കാരണങ്ങളാൽ പരാജയപ്പെടുകയും പിന്നീട് ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ തെറ്റായി തന്നെ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ഇക്കാലത്ത് ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഫാഷനുണ്ട് ഈ ഫാഷൻ അവർക്ക് സുഹൃത്തു ക്കളിൽ നിന്നും എന്തെങ്കിലും വേണമെങ്കിൽ അവർ ചെയ്യുന്നത് സുഹൃത്തിനു ഒരു മിസ് കാൾ മാത്രം ചെയ്യും നിങ്ങക്ക് സുഹൃത്തുക്കളുമായി ഏതെങ്കിലും വേദിയിൽ വെച്ചു കണ്ടുമുട്ടണമെങ്കിൽ അല്ലെങ്കിൽ മുൻതീരുമാനിച്ചതനുസരിച് എത്തുമ്പോൾ അവർ പരസ്പരം ഒരു മിസ്ഡ് കോൾ മാത്രം നൽകി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളേ മിസ്കോൾ ഇപ്പോൾ ഒരു ആശയവിനിമയമായി മാറിയിരിക്കുന്നു അതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള മിസ്ഡ് കോളുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചേക്കാം നമുക്ക് എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്താമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയുമോ നിങ്ങളുടെ ആശയവിനിമയം ഫലപ്രദമാക്കാൻ പറ്റുന്ന മറ്റ് ചില സവിശേഷതകളും ഉണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ നോൺ വെർബൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ആശയവിനിമയം രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കുന്നു അവർ തമ്മിൽ നന്നായി ആശയവിനിമയം നടത്തുന്നു കാരണം അവർ സുഹൃത്തുക്കളായതുകൊണ്ട് അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പരസ്പരം ബോധവാന്മാരാണ് ഉദാഹരണത്തിന് അവർ ഒരു സിനിമയെക്കുറിച്ചോ ഒരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ചോ ചർച്ചചെയ്യുമ്പോൾ മുൻ പരിചയം ഉള്ളത്കൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചു നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു ആശയവിനിമയം നിങ്ങൾക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കാം ലാറ്റിൻ പദമായ കമ്മ്യൂണിക്കറിൽ നിന്നും എടുത്ത ഒരു പദമാണ് യഥാർത്ഥത്തിൽ അർ ത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം കമ്മ്യൂണികെയർ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉണ്ടായതാണ് ഇതിന്റെ അര്ഥമെന്തന്നാൽ ഒരു ആശയം മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ നിങ്ങൾ അതിന്റെകൂടെ നിങ്ങളുടെ അനുഭവം കൂടി പങ്കിടുന്നു ആ ആശയം അല്ലെങ്കിൽ അനുഭവം പങ്കിടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം വഴി നടക്കുന്നു മീഡിയം ഇന്ന് പല തരത്തിൽ ആകാം സ്വീകർത്താവിനെ അനുസരിച്ച് പശ്ചാത്തലത്തെ ആശ്രയിച്ച് അവരുമായുള്ള പരിചയം അനുസരിച്ച് മീഡിയം തെരഞ്ഞെടുക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം സോഫ്റ്റ് സ്കിൽസിന്റെ മറ്റൊരു വിഭാഗം മനോഭാവമാണ് എന്താണ് മനോഭാവം നിങ്ങൾക്കറിയാം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചെന്നിരിക്കാം നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായി വന്നേക്കാം അതുമല്ലെങ്കിൽ കഠിനമായ ജോലി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാം ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ലെന്ന് വന്നേക്കാം അതിനാൽ ഇവിടെ മനോഭാവത്തിന്റെ പ്രശ്നമാണുള്ളത് മനോഭാവം എന്നത് ആൾക്കാരിൽ ഉണ്ടാവുന്ന ഒരു തരം പ്രവണതയാണ് ഒരു പ്രവൃത്തി ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ ചെയ്യുന്നതിനായി നിങ്ങൾ കാണിക്കുന്ന ഒരുതരം സന്നദ്ധത അഡാപ്റ്റബിലിറ്റി എന്നത് സോഫ്റ്റ് സ്കിൽസിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്നത്തെ ലോകത്ത് നിലനിൽപ്പിന് ഇതു ആവശ്യമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾക്കനുസരിച് മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെന്ന് വരാം മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായേക്കാം ഒരു പ്രത്യേക വേർഷനിൽ ആരെങ്കിലും തനിക്ക് സൌകര്യം ഇല്ലെന്നു പറഞ്ഞാലോ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ അയാൾക്ക് കഴിയില്ലെന്നു പറഞ്ഞാലോ നിങ്ങളുടെ ബോസ് മെഷീൻ പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും വഴിയോ മറ്റോ അവനോട് പറഞ്ഞേക്കാം ഇതാണ് വഴി നമുക്ക് ഈ മെഷീനിൽ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാം നമ്മുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെയാണ് ഇടപാടുകൾ നടക്കുന്ന രീതി അവിടെ നിങ്ങൾ പൊരുത്തപ്പെടാവുന്നവരാണെന്ന് കാണിക്കേണ്ടതുണ്ട് ഇന്നത്തെ ലോകത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ആളുകളുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ആർക്കാണ് കഴിയുക കാരണം ഇപ്പോൾ എന്റെ മുൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ജോലിയുടെ സ്വഭാവം ഓരേമാതിരിയല്ല നിങ്ങൾക്ക് ഒരേ സമയം വ്യത്യസ്ത ജോലികൾ ചെയ്യേണ്ടിവരാം അതിനായി നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റിയുടെ വൈദഗ്ദ്ധ്യം ആവശ്യമാണ് അടുത്തത് ടീം വർക്കിനെ കുറിച്ചാണ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു യുഗത്തിലല്ല ഇന്ന് നമ്മൾ മതിയായ യോഗ്യതയുള്ളതിനാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മിക്ക പ്രോജക്റ്റുകളും ടീം പ്രോജക്റ്റകളായിരിക്കും ടീം പ്രോജെക്റ്റിൽ മറ്റുള്ളവരുമായി സഹകരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ടീമിലും വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ടാവും അവരെല്ലാം വ്യത്യസ്ത വാസനയുള്ളവരും വ്യത്യസ്ത പശ്ചാത്തലക്കാരും വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും അതിനാൽ നിങ്ങൾ പരസ്പരം യോജിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട് നിശ്ചിത സമയത്ത് ചുമതല നിറവേറ്റുന്നതിന് പരസ്പര യോജിപ്പോടെ പോകേണ്ടതുണ്ട് നിങ്ങൾ ഒരു ടീമിൽ പ്രവർത്തിക്കുമ്പോൾ പല അഭിപ്രായവ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അഭിപ്രായവ്യത്യാസങ്ങളുമായി തുടരുകയാണെങ്കിൽ ടീമിലെ എല്ലാവര്ക്കും അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ നിങ്ങൾ പുതിയൊരു മെക്കാനിസം ആവിഷ്കരിക്കേണ്ടിവരും എവിടെയായിരുന്നാലും യോഗ്യതരായ ആൾക്കാർക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാവാം അവിടെ അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവാം പക്ഷേ ഈ കോൺഫ്ലിക്ട് ഒരു കലഹത്തിന് വഴിയൊരുക്കരുത് ഗുരുതരമായ സാഹചര്യം പരിഹരിക്കുന്നതിനും ബുദ്ധിമുട്ടായിട്ടുള്ള വെല്ലുവിളികളെ ലഘുകരിക്കുന്നതിനും ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് പ്രോയോജനപ്പെടുത്താം ഒരു ലീഡര്ഷിപ്നു വേണ്ടി മികച്ച ആൾക്കാരെ കണ്ടെത്താൻ നിങ്ങൾ ചില ആൾക്കാരെ വിശകലനം ചെയ്യേണ്ടി വരും അതുകൊണ്ട് അവരിൽ ലീഡർഷിപ് പാടവമുണ്ടെന്നു കണ്ടെത്തും എന്നാൽ നമുക്കെല്ലാവർക്കും ലീഡർ ആകാൻ കഴിയുമോ നമ്മളെ ലീഡേഴ്സ് ആക്കാമോ ഇല്ല പ്രിയ സുഹൃത്തുക്കളേ ലീഡർഷിപ് ഒരു പ്രത്യേക കാലയളവിലായിട്ടു വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശേഷഗുണമാണ് പക്ഷേ അതിനായി മറ്റൊരു സോഫ്റ്റ് സ്കിൽസ് നിങ്ങളുടെ സഹായത്തിനായി വരും അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നിങ്ങൾ വിവിധ ആളുകളുമായി വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഇടപഴകുമ്പോൾ ചില നേതൃത്വ തന്ത്രങ്ങളും ഒരു ലീഡറിന് ആവിശ്യമായ സ്വഭാവവിശേണങ്ങളും നിങ്ങൾ പഠിക്കുന്നു ഗ്രൂപ്പ് ചർച്ചയിൽ പഠിച്ച ക്രിയാത്മകമായ ആശയങ്ങൾ ആരോ ഒരാൾ തന്നതാണെന്നു നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവാം ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും അവരവരുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ ആരംഭിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ ആശയങ്ങൾ കൈമാറുന്നതിനായി നമ്മൾ യഥാർത്ഥത്തിൽ വരുന്നു പരസ്പരം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറികടക്കാൻ ഒരു ലീഡർഷിപ്പിന്റെ പങ്ക് ഇവിടെ ആവിശ്യമായിവരുന്നു അങ്ങനെ ആ സാഹചര്യം ലീഡർ വന്നു സംരക്ഷിക്കും അങ്ങനെ നമ്മൾ ഗ്രൂപ്പിനെ വശീകരിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കും അടുത്തത് ടൈം ആൻഡ് സ്പേസ് സ്കിൽസ് നമുക്കെല്ലാവർക്കും പരിമിതമായ സമയം ലഭിക്കാറുണ്ട് ഒരു ടീമിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും സമയപരിധിക്ക് മുമ്പായി കാര്യങ്ങൾ ചെയ്യാനും നമുക്കെല്ലാവർക്കും നിശ്ചിത ഇടം ലഭിക്കും നമ്മൾ സമയത്തെ മാനിക്കേണ്ടതുണ്ട് സമയം ഒരു മികച്ച രോഗശാന്തി കൂടിയാണ് എന്നാൽ ചില കാര്യങ്ങൾ യഥാസമയം ചെയ്തില്ലെങ്കിൽ സമയം നിങ്ങളെ ശിക്ഷിക്കും അതിനാൽ സമയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് വിജയകരമായ അല്ലെങ്കിൽ ഫലപ്രദമായ മാനേജർ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത് 24 മണിക്കൂർ മാത്രമാണ് എന്നാൽ നമുക്കെല്ലാവർക്കും ചില കഴിവുകൾ ഉണ്ട് നമ്മൾ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു സമയം കൈകാര്യം ചെയ്യുന്നതുവരെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഒരു ദൌത്യം നിർവഹിക്കാൻ കഴിയാതെ വരുന്നു തുടർന്ന് മാനറിസം വരുന്നു ജോലിസ്ഥലങ്ങൾ ഇന്ന് അതിശയകരമായ സ്ഥലങ്ങളായി മാറി എന്തുകൊണ്ട് നല്ല പെരുമാറ്റമുള്ള ആളുകൾ ഉള്ളതു കാരണം നിങ്ങളുടെ ഇന്ഹേറെന്റ് സ്കിൽസ്ന്റെ ഭാഗമാണ് മാനറിസം തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള മാനറിസം ആയിരിക്കില്ല പക്ഷേ മാനറിസം പഠിക്കാൻ കഴിയും ഇന്ന് മിക്ക ഓർഗനൈസേഷനുകളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അവർ യഥാർത്ഥത്തിൽ തിരിയുന്നതു എങ്ങനെ വേർതിരിക്കാം എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ യുക്തിസഹജമാക്കാം എങ്ങനെ വിശകലനം ചെയ്യാം എങ്ങനെ പെരുമാറണം തുടർന്ന് നിർണായക ഘട്ടത്തിൽ എങ്ങനെ ഒരു നിഗമനത്തിലെത്താം മുതലായ കാര്യങ്ങൾ അറിയുന്ന നല്ല പെരുമാറ്റമുള്ള ആളുകളെ ആണ് ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ ചുരുങ്ങുകയും വിവിധ സംസ്കാരങ്ങളിലെ ആളുകൾ ഒരേ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാം ബഹുമാനിക്കേണ്ടതുണ്ട് നാം സാംസ്കാരികമായി സംവേദനക്ഷമത കാണിക്കേണ്ടതുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആശയവിനിമയപരമായി സംവേദനക്ഷമത കാണിക്കേണ്ടതുണ്ട് നമ്മൾ ചുമതലകൾ അനുവദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ ഇടം അനുവദിക്കുകയാണെങ്കിൽ മറ്റുള്ളവരോട് കൂടുതൽ ആദരവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സമാനമായ ആദരവ് ലഭിക്കും എന്നത് ശരിയായ കാര്യമാണ് അതിനാൽ അതിജീവിക്കാനും ഇന്നത്തെ ലോകത്ത് വിജയിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് സാംസ്കാരികമായി സംവേദനക്ഷമത പുലർത്തുകയും മറ്റുള്ളവരുടെ മനോവികാരങ്ങൾ കേൾക്കാത്ത രീതിയിൽ ആശയവിനിമയം നടത്തുക എന്നതാണ് ഇപ്പോൾ ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 4 വഴികളുണ്ട് ആദ്യത്തേത് നല്ല ശ്രോതാവ് ആകുക ഇന്നത്തെ പ്രശ്നം ആരും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നല്ല ശ്രോതാവ്ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണം ഒരു ഗ്രൂപ്പ് ചർച്ചയുടെ കാര്യം എടുക്കുക നിങ്ങൾക്ക് പോയിന്റുകളൊന്നുമില്ലെന്ന് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടെത്തും എന്നാൽ നിങ്ങൾ ക്ഷമ പാലിക്കുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ആശയങ്ങൾ അവിടെ നിന്നു ലഭിക്കാം തുടർന്ന് നിങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാം അതിനാൽ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു ശ്രോതാവാകാൻ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അറിയാമോ ഒരു listener ആകാൻ നിങ്ങൾക്ക് ചില റിക്യുസൈറ്റ് സ്കിൽസ് വേണം അത് ലിസ്റ്റണിങ് സ്കിൽസ് എന്ന പ്രത്യേക അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ആശയവിനിമയത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ശ്രവിക്കുക എന്നത് ഒരു നല്ല ശ്രോതാവാകാൻ ശ്രമിക്കുക അടുത്തത് സംസാരിക്കുന്നതാണ് ഇക്കാലത്ത് മിക്ക ജോലികളിലും അവർക്ക് വേണ്ടത് ഒരു നല്ല ശ്രോതാവ് മാത്രമല്ല ഒരു നല്ല പ്രഭാഷകനെയും ഒരു നല്ല വ്യക്തിയെയും ആണ് അഭിമുഖങ്ങളിൽ സംസാരിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ വന്നേക്കാം ഡാറ്റ ശേഖരണം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കേണ്ട സാഹചര്യങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം സമാരംഭിക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ കൂടിയാലോചന നടത്തേണ്ട സാഹചര്യങ്ങൾ കച്ചവട ഇടപാട് ചർച്ച ചെയ്യുന്നത് പോലെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം അതിനാൽ ഈ അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കും അടുത്തത് വായനാ ശീലത്തിനെപ്പറ്റി നോക്കാംഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോടൊ ചിലപ്പോൾ ആയിരം പേരോടോ സംസാരിക്കേണ്ടി വന്നേക്കാം തീർച്ചയായും സാങ്കേതിക മുന്നേറ്റങ്ങൾ കാരണം വായന ശീലം ഇപ്പോഴുള്ളവർക്ക് വളരെ കുറവാണ് കാരണം മിക്ക ആളുകളും പുസ്തകങ്ങളോ മറ്റ് പത്രങ്ങൾ പോലും അവരുടെ ലാപ് ടോപ്പുകളിലോ ടാബ്ലെറ്റുകളിലോ അയിരിക്കും വായിക്കുന്നത് അതിനാൽ വായന കുറയുന്നു പക്ഷേ കൂടുതൽ തന്ത്രങ്ങൾ പഠിക്കുന്നതിനും കൂടുതൽ കഴിവുകൾ വളർത്തുന്നതിനും നിങ്ങൾ വായിക്കുന്നതാണ് നല്ലത് പുതിയ സംഭവവികാസങ്ങളെല്ലാം വായനയിലൂടെ മനസിലാക്കിയിരിക്കണം എല്ലാ ഓർഗനൈസേഷനുകളിലും നല്ല അറിവുള്ള ആളുകളെയാണ് ആവശ്യം കൂടുതൽ വായനശീലമുള്ളവർക്കാണ് നല്ല അറിവുണ്ടാകുന്നത് മിനിഞ്ഞാന്ന്ഞാൻ ഒരു ന്യൂസ്സ് വായിച്ചു അതിൽ ഒരു ഗവേഷണ സർവേയെ പറ്റിയാണ് പരാമർശിക്കപ്പെട്ടിരുന്നത് അവിടെ പരാമർശിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും വയനാശീലമുള്ളവർക്ക് തീരെ വായിക്കാത്തവരേക്കാൾ നല്ല ആയുർദൈർഘ്യം കൂടുമെന്നാണ് അതിനാൽ യഥാർത്ഥത്തിൽ വായനയുടെ മൂല്യം വളരെ വലുതാണ് വായന ഉണ്ടെങ്കിൽ പലതരത്തിലും ഗുണപ്രദമാണ് ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞത് "വായന എപ്പോഴും ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നു" "Reading maketh a full man" വായന ഒരാളെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ പുതിയതാതായിട്ട് എന്തെങ്കിലും വായിക്കുകയും തുടർന്ന് എഴുതുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശയങ്ങളും ഒരുപാട് ലഭിക്കും എഴുത്ത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാൽ ഈ കഴിവുകളുടെയെല്ലാം പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഇത് അതിനാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെപ്പറ്റി ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 4 കഴിവുകളും നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ് നിങ്ങളെ മികച്ച കമ്മ്യൂണിക്കേറ്റർ ആക്കാനുള്ള ചില പുതിയ ഘടകങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകുക സ്വീകർത്താക്കളുടെ കാഴ്ചപാടിനനുസരിച്ചു നിങ്ങള്ക്ക് നന്നായിട്ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ ഒരു സൌഹൃദം ഉറപ്പാക്കാൻ കഴിയും നിങ്ങൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവനോട് സംസാരിച്ചിരിക്കണം നിങ്ങൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഹോമോഫിൽ ഉണ്ടായിരിക്കണം ഹോമോഫിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ അനുഭവങ്ങളെയാണ് ആരെങ്കിലും ഒരു പ്രത്യേക എഴുത്തുകാരന്റെ ഒരു പുസ്തകം വായിച്ചിട്ടു ഈ പുസ്തകം വായിച്ച മറ്റൊരാളുമായി ചർച്ച ചെയ്താൽ സ്വാഭാവികമായും ആശയവിനിമയം വളരെ വേഗത്തിലായിരിക്കും അത് നിർണായകമായാതായിരിക്കും കാരണം എപ്പോഴും രണ്ടുപേർ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ അവർക്ക് ഒരു സാമാന്യതയും സുപരിചിതവും ഉണ്ടാവും അത് മാത്രമാണ് ഒരു നല്ല ആശയവിനിമയത്തിന്റെ മുഖമുദ്ര പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ listening skills വികസിപ്പിക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കാൻ കഴിയില്ലാ മിക്ക ഓർഗനൈസേഷനുകളും അവർ ടാസ്ക്കുകൾ അനുവദിക്കുമ്പോൾ നിങ്ങൾ അത് നന്നായി മനസിലാക്കിയിട്ടുണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കുന്നു തന്ന ചുമതല നന്നായി മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു പൊള്ളയായ സേവനം മാത്രം നൽകേണ്ടതില്ല കേൾക്കുന്നത് ഒരു കലയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്ദേശം രൂപപ്പെടുത്താൻ സാധിക്കുന്നു അവസാനമായി നിങ്ങൾ സന്ദേശം ശരിയായി ഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനെ നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ ഒപ്പം ഓർഗനൈസേഷന് നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ആളുകളെ നന്നായി ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ സമയത്തിന്റെ 60 മുതൽ 75 ശതമാനം വരെ നിങ്ങൾ ഏത് ജോലിയിലാണെങ്കിലും അത് കേൾക്കാൻ കൂടി ചെലവാക്കണമെന്നാണ് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആൾക്കാർ പൊതുവേ കേൾക്കുന്നത് ആയിട്ട് അഭിനയിക്കുകയും എന്നാൽ ശരിക്ക് കേൾക്കുന്നതും ഇല്ല എന്തെങ്കിലും കൂടുതൽ കേൾക്കാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ചു കൂടി മുന്നോട്ടു പോകേണ്ടതുണ്ട് കേൾക്കുന്നതിന് ബോധപൂർവമായ ഒരു ശ്രമവും ആവശ്യമില്ല അതേസമയം ശ്രദ്ധിച്ചു കേൾക്കുന്നതിന് മാനസികമായും ആവശ്യമാണ് അതിനാലാണ് ഒരാൾ സജീവമായി ശ്രവണ ശീലം വളർത്തിയെടുക്കണമെന്നു പറയുന്നത് അതിനെയാണ് പിന്നീട് പെർസെപ്റ്റീവ് ലിസണിംഗ് എന്ന് വിളിക്കുന്നത് ആശയവിനിമയ വൈദഗ്ധ്യത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ സംസാരിക്കുന്നതിനെപ്പറ്റിയാണ് അടുത്തത് ഇതിനു വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടെന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബോസും തമ്മിലുള്ള സംസാരം എന്നാൽ ചിലപ്പോൾ ഗ്രൂപ്പിന്റെ ചുമതലയുള്ളപ്പോൾ ഒരു കൂട്ടം ആളുകൾക്കും നിങ്ങക്കിടയിലും ഉള്ള സംസാരം എല്ലാം ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും സാഹചര്യത്തിന്റെ സ്വഭാവത്തിനനുസരിച് നിങ്ങളുടെ സ്പീകിംഗ് സ്കിൽസ് speaking skills0 വ്യത്യാസപ്പെടുകയും നിങ്ങൾ എങ്ങനെ അതിനെ ഫലപ്രദമാക്കി ചെയ്യുമെന്നും നിങ്ങളുടെ ആശയവിനിമയം കഴിയുമ്പോൾ അത് കാണാനാകും ഒരു സന്ദേശത്തിൽ ആരംഭിക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളും നിങ്ങൾക്കറിയാമെന്നതിനാൽ അത് ഒരു ആശയത്തിൽ നിന്ന് ആരംഭിക്കുകയും ഒടുവിൽ അത് ഒരു പ്രതികരണത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രതികരണം ശരിയല്ലെങ്കിൽ ആശയവിനിമയ പ്രക്രിയ നന്നായി നേടിയെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ അതിൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നന്നായി സംസാരിക്കാൻ കഴിയില്ല അഭിമുഖങ്ങളും ഇപ്പോഴും വളരെ നിർണായകവും വ്യത്യസ്ത സ്വഭാവമുള്ളവയാണ് തൊഴിൽ അഭിമുഖങ്ങൾ മാത്രമല്ല ജോലി ലഭിച്ചുകഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കാരണം വേണ്ടത്ര ആഗ്രഹിക്കുന്ന മതിയായ പ്രമോഷനുകൾ ഉണ്ടാവും അതിനായി നമ്മൾ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നാണ് നോക്കേണ്ടത് നിങ്ങളുടെഅവതരണം സോഫ്റ്റ് സ്കിൽസിന്റെയും സ്പീകിംഗ് സ്കിൽസിന്റെയും പ്രധാന വശങ്ങളാണ് നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതിപാദിക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയോ ഓർഗനൈസേഷനോ ഒരു പുതിയ ഉൽപ്പന്നം സമാരംഭിക്കുമ്പോൾ അതിനു ഒരു അവതരണം നൽകേണ്ടതായിട്ടു വരും ചിലപ്പോൾ ഒരു അധ്യാപകനെന്ന നിലയിൽ അവതരിപ്പിക്കേണ്ടി വരും ഒരു അദ്ധ്യാപകൻ എല്ലായ്പ്പോഴും സംസാരിക്കുന്നതും പ്രസന്റേഷൻ നൽകുന്നതും പതിവാണ് ചിലപ്പോൾ ഒരു ഗവേഷകനെന്ന നിലയിലും പ്രോജക്റ്റ് ലീഡർ എന്ന നിലയിലും നിങ്ങളുടെ പേപ്പർ അവതരിപ്പിക്കാറുണ്ട് അതിനാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവുകൾ തുടർന്നുള്ള ചർച്ചകൾക്ക് വളരെ പ്രധാനമാണ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ചു ഒരു ഇടപാട് ചർച്ച ചെയ്യാനാണു നിങ്ങളെ അയച്ചതെന്നു നിങ്ങൾ എങ്ങനെ ചർച്ച നടത്തും അതിന് ചില തന്ത്രങ്ങളുണ്ട് ഈ തന്ത്രങ്ങൾക്കെല്ലാം നിങ്ങൾ സംസാരിക്കാനുള്ള വ്യത്യസ്ത രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും അതിനെ റിട്ടെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസന്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ എന്താണ് എഴുതുന്നത് എങ്ങനെ എഴുതുന്നു ആർക്കാണ് എഴുതുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ ഒരു നീണ്ട പ്രമാണം എഴുതാൻ പോവുകയാണോ അല്ലെങ്കിൽ ഒരു ഹ്രസ്വ പ്രമാണം തയ്യാറാക്കാൻ പോവുകയാണോ ഇവയെല്ലാം ആവശ്യകതയെ ആശ്രയിച്ച് ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടുന്നു എന്നാൽ ഒരു കാര്യം ഓർക്കുക അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു എല്ലാത്തരം ബിസിനസ്സ് രചനകളും അവ യഥാർത്ഥത്തിൽ ചില തത്വങ്ങൾക്കു വിധേയമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സ് റൈറ്റിംഗിന്റെ ഉദ്ദേശ്യം സാരം പ്രകടിപ്പിക്കുന്നതിനാണ് മതിപ്പുളവാക്കാനല്ല ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ ആഡംബരമുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നതാണ് എന്റെ മുമ്പത്തെ പ്രഭാഷണത്തിലെന്നപോലെ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഹൈപ്പോകോൺഡ്രിയ പോലുള്ള വാക്ക് ഡോക്ടർ ഉപയോഗിച്ചത് നിങ്ങൾ കണ്ടിരിക്കാം ഓർമ്മിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ ആശയവിനിമയം സുഗമമാകാൻ കഴിയില്ല ഫലപ്രദവും ആയിരിക്കില്ല അതിനാൽ നിങ്ങൾ പ്രത്യേകിച്ചും ബിസിനസ്സിനായി എഴുതുമ്പോൾ വളരെ വ്യക്തമായിരിക്കുക ഓർഗനൈസേഷൻ പിന്തുടരുന്ന ഒരു പ്രത്യേക ഘടനയെയും ക്രമത്തെയും പരിഗണിച്ചായിരിക്കണം നിങ്ങൾ എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആശയവിനിമയം നടത്തുമ്പോഴോ നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് positive മനോഭാവമില്ല എന്നതാണ് ശാരീരിക ക്യാൻസറിനെ നമ്മൾ മിക്കവരും ഭയപ്പെടുന്നു അതിനേക്കാൾ കൂടുതൽ നാം ഭയപ്പെടേണ്ടത് മനോഭാവത്തിന്റെ കാര്യത്തിൽ സംഘടനയിൽ ഇഴഞ്ഞു നീങ്ങുന്ന വൈകാരിക ക്യാൻസറുകളെക്കുറിച്ചാണ് നമ്മൾ മിക്കപ്പോഴും വിമർശിക്കുകയും പരാതിപ്പെടുകയും താരതമ്യപ്പെടുത്തുകയും മത്സരിക്കുകയും ചെയ്യുന്നു പക്ഷേ അവനവന്റെ സ്വന്തം ജോലിയിൽ ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഒരു ചൊല്ലുണ്ട് എന്റെ ഷർട്ട് നിങ്ങളുടേതിനേക്കാളും അയാളുടെതിനേക്കാളും വെളുത്തതാണ് ഓർഗനൈസേഷനെയോ ലോകത്തിനെയോവിമർശിക്കാതിരിക്കുകയോ പരാതിപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതാണ് നിലനിൽക്കാൻ നല്ലത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് അടുത്തത് പൊരുത്തപ്പെടുത്തൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ് സ്കിൽസിന്റെ പ്രധാന കഴിവുകളിലൊന്നായ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് നിങ്ങൾ കർക്കശക്കാരനാകേണ്ടതില്ല നിങ്ങൾ ഒഴുക്കിനെതിരെ പോകേണ്ടതില്ല പകരം ഒഴുക്കിനെ പിന്തുടരണം മാനദണ്ഡം പാലിക്കണം സോഫ്റ്റ് സ്കിൽസിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് പ്രശ്നപരിഹാര കഴിവുകളാണ് ഒന്നുകിൽ ഒരു അഭിപ്രായവ്യത്യാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടെത്തേണ്ടിവരും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ചില സമയങ്ങളുണ്ട് അതിനായി ഡി ബോണോയുടെ 6 ചിന്തകളെ പരാമർശിക്കാം അതിനെ ഹാറ്സ് ടെക്നിക് എന്ന് പറയും എന്തെന്നാൽ 6 ആൾക്കാർ വ്യത്യസ്ത നിറത്തിലുള്ള തൊപ്പികൾ ധരിക്കുകയും തൊപ്പികളുടെ നിറത്തിനനുസരിച് യഥാർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ഒരാൾ വെളുത്ത തൊപ്പി ധരിച്ചാൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കാണുന്ന ആശയമായിരിക്കാം ഒരാൾ ചുവന്ന തൊപ്പി ധരിച്ചാൽ യഥാർത്ഥത്തിൽ വികാരങ്ങൾ നിറഞ്ഞതായിരിക്കും മഞ്ഞ ധരിക്കുമ്പോൾ അയാൾക്ക് പോസിറ്റീവ് മാനസികാവസ്ഥ പച്ച ധരിക്കുന്നയാള് യഥാർത്ഥത്തിൽ ആശയങ്ങളെ സൃഷ്ടിക്കുന്നവൻ നീല തൊപ്പി ധരിക്കുന്നവൻ സാഹചര്യം നിയന്ത്രിക്കുന്നവൻ നിങ്ങൾ ഒരു നിർണായക സാഹചര്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാനും പ്രശ്നം പരിഹരിക്കാനും കൂടുതൽ ക്രിയാത്മകവും കൂടുതൽ നിർണായകവുമായ ഫലം ലഭിക്കുന്നതിന് നിങ്ങൾ 6 ചിന്തകളെന്ന ഹാറ്റ്സ് ടെക്നിക് പരീക്ഷിക്കണം പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങളെ കൊണ്ടു മാത്രം പരിഹരിക്കാൻ കഴിയില്ലാ എന്ന് തോന്നാം മറ്റുള്ള ആൾക്കാർ വന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ പറയും എല്ലാ ആളുകളും തമ്മിൽ തൊപ്പികൾ മാറ്റുകയാണെങ്കിൽ അവർക്ക് വ്യത്യസ്ത തരം ആശയങ്ങൾ ഉണ്ടാവും അത് തികച്ചും സഹായകരമാകും അടുത്തത് ടീം വർക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റയ്ക്കുള്ള അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ ടീമിൽ ആണ് പ്രോജക്റ്റുകൾ ലഭിക്കുന്നത് ടീം വർക്ക് വളരെ പ്രധാനമാണ് ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ കണ്ടേക്കാം ഇന്ത്യ വിജയിക്കുകയോ മറ്റേതെങ്കിലും ടീം വിജയിക്കുകയോ ചെയ്താൽ ക്യാപ്റ്റൻ എപ്പോഴും പറയുന്നു അത് ടീമന്റെ മാത്രം വിജയമാണ് വ്യക്തിയുടെ വിജയമല്ല എന്ന് ടീമിൽ ടീം സ്പിരിറ്റിന്റെ ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അവിടെത്തെ ആൾക്കാരിൽ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത അഭിരുചികൾയുള്ളവരും ഉണ്ടായേക്കാം പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് അവരെയെല്ലാം ഒന്നിച്ചു ചേർത്തു നിറുത്തി മുന്നോട്ടു പോകുക എന്നതാണ് അവരെ ആകർഷഭരിതരാക്കാനും ചേർത്തുനിർത്താനും സുസെയ്ൻ ബിട്ലാകെ പറഞ്ഞപോലെ "ഭാവിയിലെ ഓർഗനൈസേഷന്റെ മിക്ക മോഡലുകളിലും ടീമാണ് വ്യക്തികൾ അല്ല പ്രാഥമിക പ്രകടന യൂണിറ്റായി പ്രവർത്തിക്കുക" ടീമുകൾ ഒപ്പിടുകയും ഒരുമിച്ച് മുങ്ങുകയും ചെയ്യുമെന്ന് നമുക്ക് പലപ്പോഴും പറയാം ഇവിടെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തൽ ഗെയിം കളിക്കാൻ കഴിയില്ല കാര്യങ്ങൾ തെറ്റിപ്പോയാൽ കുറ്റപ്പെടുത്തുന്ന പ്രവണത നമ്മളിൽ ഉണ്ട് എന്നാൽ നാം ഏറ്റെടുക്കുന്ന പ്രവണത വികസിപ്പിക്കണം അല്ലെങ്കിൽ തോൽവിയുടെ കാര്യത്തിലായാലും വിജയത്തിന്റെ കാര്യത്തിൽ ആയാലും അത് ഏറ്റെടുക്കുക ഇത് യഥാർത്ഥത്തിൽ ടീമിന്റെ വിജയമാണെന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ടീമുകൾ ഇല്ലാതെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു വ്യക്തിയെന്ന നിലയിൽ ഏടുത്താൽ അത് വേദനിപ്പിച്ചേക്കാം എന്നാൽ അത് ഒരു ടീമിന്റേതായി എടുക്കുമ്പോൾ അവിടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ഉൾപ്പെടുന്നു നിങ്ങൾക്ക് ഒരു പരിഹാരവും ലഭിക്കും ഒരു ടീമിൽ വൈരുദ്ധ്യമുണ്ടാകും പൊരുത്തക്കേടുകൾ നിങ്ങൾ പരിഹരിക്കേണ്ടി വരും പൊരുത്തക്കേട് പരിഹരിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ സ്വാധീനിക്കേണ്ടതില്ല വികാരങ്ങൾക്ക് അധീതനാക്കണം പ്രശ്നങ്ങൾക്ക് പൊരുത്തക്കേട് സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് Refer Slide Time 3042 ഡേവിഡ് ഹ്യൂം പറയുന്നതുപോലെ സുഹൃത്തുക്കൾക്കിടയിലെ വാദത്തിൽ നിന്നുള്ള ഉറവകളാണ് സത്യം എന്നാൽ വഴക്കുണ്ടാകരുത് വളരെയധികം ആളുകൾ പരസ്പരം തർക്കിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ ഉത്ഭവിക്കുന്നു ഈ പുതിയ ആശയങ്ങൾ എല്ലായ്പ്പോഴും ഒരു പരിഹാരത്തിലേക്ക് നയിക്കും മാത്രമല്ല ഇത് എല്ലായ്പ്പോഴും പ്രവർത്തനക്ഷമമാണ് ആരോഗ്യപരമായിരിക്കും ക്രിയേറ്റ് തിങ്കിംഗ് ഉറപ്പാക്കുകയും ടീം തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ ഉപകരിക്കുന്നു ലീഡർഷിപ് എന്നത് സോഫ്റ്റ് സ്കിൽസ് ന്റെ പ്രധാന വൈദഗ്ദ്ധ്യം കൂടിയാണ് ആർക്കാണ് ഒരു നേതാവാകാൻ കഴിയുക നമുക്കെല്ലാവർക്കും നേതാക്കളാകാൻ കഴിയില്ല നാമെല്ലാവരും നേതാക്കളാകുകയാണെങ്കിൽ ആരാണ് അനുയായികൾ നേതാവ് പലപ്പോഴും ഒരു നിർണായക ഘട്ടത്തിൽ നിന്ന് പുറത്തുവരും അപ്പോൾ മറ്റൊരു നേതാവ് ഉയർന്നുവരും നേതാവ് അവന്റെ യോഗ്യത കാരണം സ്വന്തമായി ഉയർന്നുവരും ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും സ്വാധീനം തോന്നുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കും ഗ്രൂപ്പിലെ പിന്തുണക്കാരുമായി പ്രവർത്തിച്ച് എതിരാളിയുടെ കാഴ്ചപ്പാടിനെ യുക്തിപരമായി ദുർബലപ്പെടുത്തും ഗ്രൂപ്പ് ചർച്ചയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നമ്മൾ ചർച്ചചെയ്യുമ്പോൾ ഗ്രൂപ്പ് ചർച്ചകൾ വ്യതിചലിക്കാൻ പോകുമ്പോൾ ഒരു നേതാവ് പെട്ടെന്ന് എങ്ങനെ ഉയർന്നുവരുന്നുവെന്ന് നമ്മൾ കണ്ടെത്തും അവൻ ഒരു രക്ഷകനായി ഉയർന്നുവന്നു സംരക്ഷിക്കുന്നത് ഗ്രൂപ്പിനെ മാത്രമല്ല പ്രശ്നങ്ങളെയും ഉടനെ ഫലപ്രദമായ പങ്കാളിത്തത്തിലൂടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മാറ്റം വരുത്തുന്നു ബഹുസാംസ്കാരിക ബഹുഭാഷാ ലോകമെന്നു പറയാൻ കഴിയുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ ഒരു ബഹു സാംസ്കാരിക ബഹുഭാഷാ ലോകത്തെ അതിജീവിക്കാനും വിജയിപ്പിക്കാനും നമ്മൾ ചെയ്യേണ്ടത് സാംസ്കാരിക വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഒരാളുടെ സംസ്കാരം മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടും അതിനാൽ പരസ്പരം വിശ്വാസം വ്യത്യാസപ്പെടും ആദം സ്മിത്ത് പറയുന്നതുപോലെ "സംസ്കാരം ഒരു കോഡാണ് നമ്മൾ പഠിക്കുകയും പങ്കിടുകയും ചെയ്യുന്നു" നിങ്ങൾ പല സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പല വ്യത്യാസങ്ങളും കാണും എന്നാൽ നിങ്ങൾക്ക് അതിജീവിക്കുകയും ഒരു പോസിറ്റീവ് ഇമേജ് സൃഷ്ടിക്കുകയും വേണ്ടതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ നിങ്ങളുടേതായി അംഗീകരിക്കുക അങ്ങനെ പഠിക്കുന്നതിലൂടെയും പങ്കു വയ്ക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു നിങ്ങളുടെ സംസ്കാരത്തിലെ എല്ലാം നല്ലതല്ല മറ്റുള്ളവരുടെ സംസ്കാരത്തിലെ എല്ലാം മോശവുമല്ല നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നിങ്ങൾ സ്വാംശീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ accommodate ചെയ്യുന്നതിലൂടെയും ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതിലൂടെയും ആരോഗ്യപരമായും സന്തോഷത്തോടെയും പുരോഗമനാത്മകമായും മാത്രമല്ല ഒരു ടീമായി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയും ഞാൻ പറയുന്നതുപോലെ ടീമുകൾ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഭാവി തന്നെയാണ് ടീമുകളിൽ ഒരു സംസ്കാരത്തിലെ ആളുകൾ മാത്രമല്ല നിരവധി സംസ്കാരങ്ങളും ഉൾപ്പെടുന്നു സംസ്കാരങ്ങൾ വ്യത്യാസപ്പെടാം പക്ഷേ വ്യക്തികളെന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സംസ്കാരത്തെ മാനിക്കുകയും മറ്റുള്ളവരുടെ സംസ്കാരത്തെ ചെറുതായി കാണാതിരിക്കുകയും വേണം കാരണം നിങ്ങൾക്ക് ഫലപ്രദമായി ആശയവിനിമയം നടത്തണമെങ്കിൽ ആശയവിനിമയത്തിന് ഒരു ബന്ധിത ശക്തിയുണ്ടെന്നും ഒരു വിഭജന ശക്തിയല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കണം സോഫ്റ്റ് സ്കിൽസിന്റെ എല്ലാ വശങ്ങളിലൂടെയും നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത വിശ്വാസങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ആളുകളുമായി ഇടപഴകേണ്ട ഒരു പ്രായോഗിക ലോകത്ത് ആവശ്യമായ ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം എന്നാൽ അതിജീവിക്കാനും വിജയിക്കാനും ഐക്യം സൃഷ്ടിക്കാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ നമുക്ക് ശ്രമിക്കാം മറ്റുള്ളവരുടെ സാംസ്കാരിക മൂല്യങ്ങളെ മതതത്ത്വസംഹിതകളെയും മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെയും തുല്യമായി ബഹുമാനിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ വകതിരിച്ചിട്ടല്ല എന്നാൽ മേന്മയോടെ ജീവിതത്തിലും ജോലികളിലും നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള അടിസ്ഥാന യാഥാർത്ഥ്യം മനസിലാക്കാൻ ഈ പ്രഭാഷണവും മുമ്പത്തെ പ്രഭാഷണവും നിങ്ങളിൽ ഒരുതരം തിരിച്ചറിവ് സൃഷ്ടിച്ചിരിക്കുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം സോഫ്റ്റ് സ്കിൽസിന്റെ കാഴ്ചപ്പാടിൽ നിന്നും അതിന്റെ പ്രാധാന്യത്തിൽ നിന്നും നമുക്ക് അത് വിശകലനം ചെയ്യാം വളരെയധികം നന്ദി